അപ്പോൾ നമുക്ക് ഡിബൈ മോഡൽകൈകാര്യം ചെയ്യാം ഇത് ഒരു അപ്രോക്സിമേഷൻ ആണ് പക്ഷെ അത് ന്യായമായ ഒരു കാര്യമാണ്കാരണം അതായത് അതിന്റെ വിവിധ സവിശേഷതകളിലേക്ക് നോക്കുകഡെനോമിനേറ്ററിൽവരുന്ന ഫ്രക്വൻസി ടെർമ് എന്താണ് സീറോ ഫ്രീക്വൻസി യിൽ ഏത് ടെർമ് ആണ് ഈ എക്സ്പ്രഷനിൽ നിലനിൽക്കുന്നത് വിദ്യാർത്ഥി എപ്സിലോൺ s ഇതിനെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് വാല്യൂ എന്ന് വിളിക്കാം എങ്കിൽ വളരെ വലിയ ഫ്രീക്വൻസികളിൽ എന്ത് സംഭവിക്കും അതേ നിങ്ങൾക്ക് എപ്സിലോൺ ഇൻഫിനിറ്റി കിട്ടും ഇത് വളരെ വലിയ ഫ്രീക്വൻസിയുടെ കാര്യം ആണ് ഇവിടെ ഉള്ള ഈ തൌ നെ റിലാക്സേഷൻ ടൈംഎന്ന് വിളിക്കുന്നു ഇത് ഒരു പക്ഷെ ഫ്രീക്വൻസി ഡിപെൻഡൻസ് ഓഫ് പെർമിറ്റിവിറ്റിയുടെ ലളിതമായ മോഡലുകളിൽ ഒന്നാവാം ഇവിടെ ഉള്ള മുമ്പത്തെ എക്സ്പ്രഷനിൽ ന്റെ ഫോം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നാം ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇത് ഒരു ഫോം ആയി ആരംഭിക്കാൻ പോകുന്നു പിന്നെയും നമ്മൾ മുഴുവൻ പാസ്ററ് ഹിസ്റ്ററിയും സംഭരിക്കേണ്ടി വരുമോ അതോ ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ലക്ഷ്യം ഇതാണ് ഇവിടെ ഉള്ള മുഴുവൻ ടെർമും ഒരു പാട് തവണ പ്രത്യക്ഷപ്പെടും അതിനാൽ ഞാൻ ഇതിന് ഒരു ഷോർട്ഹാൻഡ് നൊറ്റേഷൻകൊടുക്കുകയാണ് ഞാൻ ഇതിനെ എന്ന് വിളിക്കും ഇത് ഫ്രീക്വൻസി ഡോമൈനിൽ ആയതിനാൽ ഞാൻ അതിൽ ഒരു ടിൽഡ് ഇടുന്നു അപ്പോൾ ഇത് ആവും വീണ്ടും ടൈം ഡോമെയിനിലേക്ക്നോക്കിയാൽ ആ മോഡൽ നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം ഈ ഇലക്ട്രിക് ഫീൽഡുകൾ Yee സെല്ലുകളിലെ കാൽക്കുലേഷനിൽ നിന്നാണ് വരുന്നത് അതിനാൽ അത് ഫങ്ക്ഷൻ അല്ല വെറും നമ്പറുകൾ ആണ് പിന്നെ ഉള്ളത് ഇതാണ് ഇത് ഏത് ഡോമൈനിൽ ആണ് ഫ്രീക്വൻസി ആണോ ടൈം ആണോ ടൈം ഡോമെയിൻ ആണ് അതിനാൽ ഞാൻ പെർമിറ്റിവിറ്റിയുടെ ചില ഫ്രീക്വൻസി ഡോമെയിൻ വേർഷനിൽ തുടങ്ങി അത് ഡിസ്പെഴ്സിവ് സ്വഭാവം കാണിക്കുന്നു ആണ് ഇപ്പോൾ ഈ D നടപ്പിലാക്കണമെങ്കിൽ കാരണം അപ്ഡേറ്റ് ഇക്വേഷനിൽ ഇടാൻ D ആവശ്യമുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റ് ഇക്വേഷൻ ഞാൻ ഇത് കാണുന്നു എന്ന് വിചാരിക്കുക എനിക്ക് D ടൈം ഡോമൈനിൽ വേണം എന്നിട്ട് ഒരു ഡെറിവേറ്റീവ് എടുക്കുക ടൈം ഡോമൈനിൽ D കിട്ടണമെങ്കിൽ എനിക്ക് ടൈം ഡോമൈനിൽ ഈ വേണം പക്ഷെ എന്തിനെ കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ഫ്രീ ക്വൻസി ഡോമെയിൻ ആണ് ആരംഭ സ്ഥാനംതുടങ്ങാനുള്ള ഏറ്റവും ലളിതമായ സ്ഥലം അതാണ് ടൈമിന്റെ ഫങ്ക്ഷൻ ആയി കിട്ടാൻ ഈ എക്സ്പ്രഷന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കേണ്ടതുണ്ട് തുടക്കത്തിൽ ഇടാം ന് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് കിട്ടും ഇതിനെ സ്റ്റാറ്റിക് എന്ന് വിളിക്കുന്നു സീറോ ഫ്രീക്വൻസി കാരണം എനിക്ക് ഇതിന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കണമെങ്കിൽ ഉദാഹരണമായി നമുക്ക് ഘട്ടം ഘട്ടം ആയി നോക്കാം എന്താണ് ന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം പരിചിതമായി തോന്നുണ്ടോ ഇത് എക്സ്പോണെൻഷിയൽ ആണ് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി ദ്രവിക്കൽ അതേഈ കോൺസ്റ്റന്റ് ഈ എപ്സിലോൺ ഇൻഫിനിറ്റിയെ മുന്നോട്ട് കൊണ്ട് പോവും എനിക്ക് ഉണ്ട് നെ കൊണ്ട് ഹരിക്കുകയാണ് കാരണം ഈ ഡെനോമിനേറ്ററിൽആണ് അവിടെ വേറെ ഒരു പ്രധാന കാര്യം കൂടി ഉണ്ട് അല്ല ൽഞാൻ വിട്ട് പോയി അവിടെ എനിക്ക് ഒരു ടെർമ് കൂടി ഉണ്ട് വിദ്യാർത്ഥി യൂണിറ്റ് അതേ യൂണിറ്റ് സ്റ്റെപ് വിദ്യാർത്ഥി യൂണിറ്റ് സ്റ്റെപ് യൂണിറ്റ് സ്റ്റെപ്സ്എന്താണെന്ന് എല്ലാവർക്കും അറിയാംഇത് ലളിതമാണ് ഈ യൂണിറ്റ് സ്റ്റെപ്ഇല്ലാതെ ഈ ഫങ്ക്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കാൻ ശ്രമിച്ചാൽഅത് മൈനസ് ടൈം സ്കേലിൽ അൺബൌണ്ടഡ് ആവും എനിക്ക് ഈ t യൂണിറ്റ് ആവശ്യമാണ് ഇതാണ് എന്റെ ന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം ഇപ്പോൾ എനിക്ക് ന്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടും ആദ്യത്തെ ടെർമിനു എന്ത് സംഭവിക്കും അത് ആയിരിക്കില്ല മറ്റെന്തെങ്കിൽ കൂടി ഉണ്ടായിരിക്കണം വിദ്യാർത്ഥി ഡെൽറ്റ t ഇപ്പോൾ എനിക്ക് കിട്ടി എന്താണ് എന്റെ അടുത്ത ലക്ഷ്യം വിദ്യാർത്ഥി ഇത് ഇടണം ഇത് ഇക്വേഷൻ D യിലേക്ക് ഇടണം അപ്പോൾ നമ്മുടെ D ഇക്വേഷൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇത് ഈ ഇക്വാഷനിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്യണം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ആസൂത്രണം ചെയ്യാം ഈ മുഴുവൻ ടെർമും ആണ് എന്ന് ഓർമിക്കണം ഈ ഇന്റഗ്രലിന്റെ അനലിറ്റിക്കൽ മൂല്യനിർണ്ണയം യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയില്ല FDTD യിൽ നമ്മൾ സ്പേസും ടൈമും ഡിസ്ക്രിടൈസ് ചെയ്യുന്നു അടുത്ത ടൈം അപ്ഡേറ്റ് വരെ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നെറ്റിക് ഫീൽഡിനും എന്ത് സംഭവിക്കുന്നു കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും അല്ലെ ഒരു നിശ്ചിത ടൈം ഇന്റർവെൽ വരെ കോൺസ്റ്റന്റ് ആയിരിക്കുംപിന്നെ അത് അപ്ഡേറ്റഡ് ആവും അങ്ങനെയാണ് FDTD പ്രവർത്തിക്കുന്നത് അവിടെ അനലിറ്റിക്കൽ മൂല്യനിർണ്ണയം ഇല്ല ഇപ്പോൾ ഈ ടൈം ഇന്റഗ്രലിനെ ഞാൻ എങ്ങനെ ഡിസ്ക്രിടൈസ് ചെയ്യും വിദ്യാർത്ഥി ഡെൽറ്റ t ശരിയാണ്എനിക്ക് ഉണ്ട് ഞാൻ ഇത് 0 to t ആയി വിഭജിക്കും വിദ്യാർത്ഥി 0 തൊട്ട് t വരെ ഇത് ഓരോ ടൈം ഇൻസ്റ്റന്റിലെയും സങ്കലനം ആയി മാറും ഇതാണ് എന്റെ ടൈം ഇൻസ്റ്റന്റ് ഇതാണ് 0 മുതൽ t വരെ ഉള്ള എന്റെ ടൈം ഞാൻ ഇതിനെ വിഭജിച്ച് ന്റെ ഇടവേളകളാക്കാൻ പോവുകയാണ് എന്നിട്ട് സങ്കലനം ചെയ്യും അതാണ് നടക്കാൻ പോവുന്നത് ആണ് എന്റെ നൊറ്റേഷൻ ഇതൊക്കെ നടക്കുന്നത് സ്പേസിലെ ഒരു പ്രത്യേക പോയിന്റിൽ ആണ് വിദ്യാർത്ഥി സവിശേഷമായ ഫോം നിങ്ങൾ ഡീബൈ മോഡൽ ന് വേണ്ടിയാണോ ചോദിക്കുന്നത് വിദ്യാർത്ഥി അതേ ഇത് അനലിറ്റിക്കൽ ആയി ഉത്ഭവിക്കുന്നതാണോ വിദ്യാർത്ഥി അതേ 0 to t 0 to t മുതൽ ഉള്ള ഇന്റഗ്രൽ വിദ്യാർത്ഥി അതേ ഇതിന് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇക്വേഷൻ വിദ്യാർത്ഥി E ഇല്ല കാരണം എനിക്ക് E അറിയില്ല എനിക്ക് ഈ ഇന്റഗ്രലിലെ അറിയില്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് ഫങ്ക്ഷൻ ഓഫ് ടൈം എന്നറിപ്പെടുന്നത്അപ്പോൾ എനിക്ക് അത് വിലയിരുത്താൻ കഴിയും പക്ഷെ എനിക്ക് കമ്പ്യൂട്ടേഷന്റെ ലക്ഷ്യം ആയ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അറിയില്ല സത്യത്തിൽ E യും H ഉം അറിയില്ല ഇവിടെ ഉള്ള ഈ D ഒരു തരം അസൌകര്യം ആണ് കാരണം മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation ആണ് അല്ല എനിക്ക് D യിലേക്ക് പോണം എന്നിട്ട് D യിൽ നിന്നും E യിലേക്ക് വരണം എങ്കിലും D അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഇക്വേഷനിൽ നിന്ന് അത് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നത് n ടൈം ഇൻസ്റ്റന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന്റെ മൂല്യം ആണ് എന്തായിരിക്കും ആദ്യം ഇപ്പോൾ ഇന്റഗ്രലിലെ ഈ ആദ്യത്തെ ആൾ പുറത്ത് വരാൻ പോവുകയാണ് ഇവിടെ ഉള്ള ഈ മുഴുവൻ എക്സ്പ്രഷനും ഇതിലേക്ക് സബ്സ്റ്റിട്യൂട്ട് substituteചെയ്യാൻ പോവുകയാണ് എന്താണ് ആദ്യത്തെ ടെർമ് എനിക്ക് തരുന്നത് വിദ്യാർത്ഥി എപ്സിലോൺ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഗുണിക്കും കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ടൈം ഇൻസ്റ്റന്റിൽ ആണ് വിദ്യാർത്ഥി t t എന്നാൽ n അല്ലെ ഈ t n ന് തുല്യം ആണ് മുകളിൽ കണ്ടിന്യൂഅസ് ടൈം വേർഷൻ ഉണ്ട് താഴെ ഡിസ്ക്രീറ്റ് വേർഷനും ഇതാണ് ഡിസ്ക്രീറ്റ് ഇത് കണ്ടിന്യൂഅസും അടുത്ത ടെർമ് നോക്കാം അതാണ് രസം ഞാൻ അനുമാനിക്കാൻ പോവുന്നത് ഓരോ ടൈം ഇടവേളകളിലും ഇലക്ട്രിക് ഫീൽഡ് മാറില്ല അതിനാൽ ഞാൻ സങ്കലനം നടത്താൻ പോവുന്നു ഉദാഹരണമായി ഇത് n അല്ലെഅതിനാൽ ഇതിന്റെ ഒക്കെ മുകളിൽഅതായത് 01234 ഈ പോയിന്റ് വരെ അത് n 1 ആണ് ടൈം ഇടവേളയുടെ ആരംഭ പോയിന്റ് ന്റെ ആരംഭത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നും ഒന്ന് തന്നെ ആണെന്ന് ഞാൻ അനുമാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും കിട്ടും സമ്മേഷൻ എന്തായിരിക്കും ഇന്റെഗ്രേഷന്റെ പരിധികൾ എന്തായിരിക്കും ഞാൻ എന്ന വാരിയബിൾ കൊണ്ടുവന്നു എന്താണ് ആരംഭ പോയിന്റ് വിദ്യാർത്ഥി M ഡെൽറ്റ t to ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താണ് വിദ്യാർത്ഥി എപ്സിലോൺ r അല്ല വിദ്യാർത്ഥി എപ്സിലോൺ അല്ല അത് അവിടെ നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ട് വിദ്യാർത്ഥി എപ്സിലോൺ s അതേ പക്ഷെ ഒരു ഷോർട് ഹാൻഡ് നൊറ്റേഷൻ ഉണ്ട് നമുക്ക് പരിധികൾ നോക്കാം ഉദാഹരണമായി m0 എന്ന് സബ്സ്ടിട്യൂട്ട് ചെയ്യുക m0 ഇട്ടാൽ എനിക്ക് കിട്ടും ഇന്റഗ്രൽ നെ കൊണ്ട് ഗുണിക്കും ആദ്യത്തെ സെഗ്മെന്റ് മുതൽ0 to ആയി എടുക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ ഉം ഉം സീറോ ടൈം ഇൻസ്റ്റന്റിൽ ഉം ആവും ഇലക്ട്രിക് ഫീൽഡ് പ്രെസെന്റിലും സീറോ യിലും ആയിരിക്കും ഇത് എങ്ങനെ നിങ്ങൾ കോൺവലൂഷൻ ചെയ്യും എന്നതിന്റെ പുനരാവലോകനം ആണ് 0 യിൽ നിന്നും t യിലേക്ക് നീങ്ങുന്നു അതായത് ഇവിടെ ഉള്ള രണ്ടാമത്തെ ഭാഗം m പുരോഗമിക്കുമ്പോൾ0 യിൽ നിന്നും t യിലേക്ക് നീങ്ങുന്നു മറുവശത്തു m പുരോഗമിക്കുമ്പോൾ വർദ്ധിക്കുന്നു അതിനാൽ കുറയുന്നു അവസാനമായി ആവുമ്പോൾ എനിക്ക് കിട്ടുന്നു ഞാൻ stആയി സബ്സ്ടിട്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും വിദ്യാർത്ഥി E1 ശരിയാണ്തുടക്കത്തിൽ ആണോ അവസാനത്തിൽ ആണോ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവയാണ് ടൂൾസ് ഇത് മനസ്സിലായല്ലോ അല്ലെ ഈ ഭാഗം നല്ലോണം മനസ്സിലാക്കണം കാരണം ബാക്കിയുള്ളത് ഇതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഡീബൈ മോഡൽ എടുത്തു ഇത് ടൈം ഡോമൈനിൽ എന്തായിരിക്കും എന്ന് കണ്ടു പിടിക്കാൻ നമ്മൾ ഇതിന്റെ ഇൻവെർസ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു ടൈം ഡോമൈനിനെ D യും E യും തമ്മിലുള്ള കോൺസ്റ്റിട്യൂട്ടീവ് റിലേഷനിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്തു ഇതുവരെ നമ്മൾ ചെയ്തത് ഇതൊക്കെയാണ് എന്തൊക്കെയാണ് അപ്രോക്സിമേഷനുകൾ അടിസ്ഥാനപരമായി ഡീബൈ മോഡൽ രണ്ടാമത്തെ അപ്രോക്സിമേഷൻ ഈ പീസ് വൈസ് കോൺസ്റ്റന്റും ഇതിനേക്കാൾ നന്നായി നമുക്ക് വേറെ ഒന്നും കഴിയില്ല കാരണം എനിക്ക് ഡിസ്ക്രീറ്റ് ടൈം ഇൻസ്റ്റൻസിലെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ അറിയുകയുള്ളൂ എല്ലായിടത്തും അറിയില്ല വിദ്യാർത്ഥി 0 to E കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക എന്ത്കൊണ്ട് 0 to n ൽ E കോൺസ്റ്റന്റ് ആയിരിക്കണം ഞാൻ Yee സെല്ലിലെ എല്ലാ ടൈം ഇൻസ്റ്റന്റിലെയും E കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അതിനാൽ എനിക്ക് E യുടെ റെക്കോർഡ് ഉണ്ട് കോൺവലൂഷൻ ഇന്റെഗ്രലിന്റെ കണ്ടിനുഅസ് കേസ് നോക്കുക അതിനു വേണം 0 മുതൽ t വരെ വ്യത്യാസപ്പെടുന്നു ആവശ്യമുണ്ട് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ല അതേ ഇതിനെ എന്ന് വിളിക്കാം നല്ല ഒരു പോയിന്റ് ആണ് എന്നത് വിശ്രമ സമയം ആണ് അതിന് ഇവിടെയുള്ള വാരിയബിൾ ഓഫ് ഇന്റെഗ്രേഷനുമായി ഒന്നും ചെയ്യാനില്ല അതിനാൽ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ഘട്ടം ഇതിനെ അപ്ഡേറ്റ് ഇക്വേഷനിലേക്ക് ഇടുകയാണ് അതാണ് യുക്തിപരമായ അടുത്ത ഘട്ടം എന്താണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation നമ്മളോട് പറയുന്നത് അവിടെ കറണ്ട് ഇല്ല എന്ന് ഞാൻ അനുമാനിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഒരു കറന്റ് ടെർമ് കൂടി ഉണ്ടാവും ഇപ്പോൾ ഇത് ആവും അതായത് ഞാൻ നേരത്തെ ഉത്ഭവിപ്പിച്ച ഈ എക്സ്പ്രഷൻ മാത്രമല്ല എടുക്കേണ്ടത് കൂടി എഴുതേണ്ടതുണ്ട് എന്നിട്ട് രണ്ടും കുറക്കണം നമുക്ക് കിട്ടിയ ടെർമ് വികസിപ്പിക്കാം അപ്പോൾ എന്തിനോടാണ് സമം ആയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇന്റഗ്രൽ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടും അത്കൊണ്ട് അതിന് കൂടി ഒരു ഷോർട് ഹാൻഡ് നൊറ്റേഷൻ വേണം ഇതിന് നമുക്ക് വേറെ കളർ ഉപയോഗിക്കാം അതിനെ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഈ ഇന്റഗ്രൽ എല്ലായിടത്തും എഴുതേണ്ടി വരും ഇനി എന്താണ് ആദ്യത്തെ ടെർമ് അതായത് എനിക്ക് എല്ലായിടത്തും ഉണ്ട് പിന്നെ ഉം ഉണ്ട് എനിക്ക് ഇവിടെ ൽ നിന്ന് കുറക്കേണ്ടതുണ്ട് എന്ന് ഓർമിക്കണം നുംn നും ഒരു പാട് ടെർമുകൾ പൊതുവായുണ്ട് ആദ്യം ഞാൻ സമ്മേഷൻ എഴുതിയിട്ട് പിന്നെ കുറക്കൽ ചെയ്യും അതിനാൽ ഇവിടുത്തെ ആദ്യ ടെർമ് നമുക്ക് m 0 യിൽ നിന്ന് തുടങ്ങാം അപ്പോൾ അത് എന്താവും വിദ്യാർത്ഥി En അതേ പിന്നെ ഞാൻ m0 യിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് എന്തായി മാറുംനിങ്ങൾ ഇന്റിസസ് ന്റെ ട്രാക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് വളരെ ലളിതമാണ് അടുത്തത് ആയിരിക്കും വിദ്യാർത്ഥി 1 ഇത് വരെ തുടരുന്നു അവിടെ എത്ര ടെർമുകൾ ഉണ്ട് വിദ്യാർത്ഥി N ടെർമ് N ടെർമ് ok ഇനി നമുക്ക് എഴുതാം ഇത് എളുപ്പമാണ് ആദ്യ ടെർമ് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങും എനിക്ക് ഇത് ഉണ്ടോ എനിക്ക് ഉണ്ടോ അല്ല ഈ ടെർമ് അവിടെ ഇല്ല അടുത്തത് ഉണ്ടോ സമ്മേഷന്റെ ആദ്യ ടെർമ് എന്താണ് നോക്കൂ ഇവിടെ ഒരു n ഉണ്ട് ഇവിടെ ഒരു n ഉണ്ട് ഇവിടെ n 1 ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ n നെ n 1 കൊണ്ട് മാറ്റിയാൽ ഇത് എന്താവും ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ടെർമ് ആവും ഇതാണ് സമ്മേഷന്റെ ആദ്യ ടെർമ് അത് m0 ആണ് വിദ്യാർത്ഥി 0 ശരിസമ്മേഷൻ അവസാനം എന്താവും എന്തായിരിക്കും അവസാന ടെർമ് തന്നെ ആയിരിക്കും എത്ര ടെർമുകൾ n 1 ടെർമുകൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഈ രണ്ടെണ്ണവും കുറക്കണം എന്നിട്ട് കൊണ്ട് ഹരിക്കണം നമുക്ക് ഇത് ഇവിടെ എഴുതാം ഉം ഉം നമുക്ക് ഈ കുറക്കൽ ബുദ്ധിപരമായി ചെയ്യണം നമുക്ക് ആദ്യം ഈ എപ്സിലോൺ ഇൻഫിനിറ്റി ടെർമുകളെ കൈകാര്യം ചെയ്യാം എന്നിട്ട് സമ്മേഷൻ എടുക്കാം അതിനാൽ അവിടെ ഉണ്ട് അവിടെ ഒറ്റക്കായ ഒരു ടെർമ് ഉണ്ട് അതിനെ നമുക്ക് എന്ന് എഴുതാം പിന്നെ ഇലക്ട്രിക് ഫീൽഡ് പൊതുവായതാവും ബീറ്റാ ബാറുകൾ വ്യത്യസ്തമാണ് എനിക്ക് കിട്ടും പിന്നെ ഉം ഇനി ഞാൻ എല്ലാ n 1 ടെമുകളും പരസ്പരം കുറയ്ക്കും അതിനാണ് ഞാൻ അതിനെ ഒന്നിന് മുകളിൽ ഒന്നായി എഴുതിയത് ഇവയെ ഞാൻ കുറക്കാൻ പോവുകയാണ് ശ്രദ്ധിക്കുക രണ്ട് ടെമുകളിലും E ഒന്ന് തന്നെയാണ് ഇതാണ് m ലുള്ള സമ്മേഷൻ അതിനാൽ വിദ്യാർത്ഥി സർ പറയൂ വിദ്യാർത്ഥി Dn 1 ൽ ആദ്യ രണ്ട് ടെർമുകൾ n 1 ടെർമ് തന്നെ അല്ലെ ൽ ആദ്യത്തെ ടെർമ് വിദ്യാർത്ഥി Dn 10 അത് പ്രത്യേകമായി ആദ്യ ടെർമിൽ വരും ഇവിടെ ഒരു ടെർമും ഇല്ല വിദ്യാർത്ഥി അത് 0 അല്ലെ അതേ 0 ആണ് വിദ്യാർത്ഥി അതേ ആദ്യ ടെർമിൽ വരും അതായത് ഞാൻ ഇവിടെ ഒരു ഒഴിവ് ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഇത് ആദ്യ ഇക്വേഷനുമായി വിന്യസിപ്പിക്കണം അതിനാൽ അവിടെ ഒന്നുമില്ല ഇത് ഇവിടെ ഒരു ശൂന്യം ആണ് ആദ്യ ടെർമിലേക്ക് നോക്കുക അപ്പോൾ m എന്തിൽ നിന്ന് തുടങ്ങണം വിദ്യാർത്ഥി 0 0പിന്നെ എനിക്ക് എന്ത് കിട്ടും വിദ്യാർത്ഥി M പ്ലസ് 1 സമ്മേഷൻ m 0 യിൽ നിന്നും ലാസ്റ്റ് ടെർമിലേക്ക് പോകുന്നു വിദ്യാർത്ഥി n 2 n 2വളരെ നല്ലത് ഇത് അത്ര ബുദ്ധിമുട്ട് ഉള്ളതല്ല ഇത് വെറും ആൾജിബ്രാ ആണ്ഏത് ടെർമ് എവിടെയാണ് എന്നതിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നു ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു തവണ നമ്മൾ ഡീബൈ മോഡൽ അനുമാനിച്ചാൽ പിന്നെ എല്ലാം നേരെയാണ് ഫോറിയർ ട്രാൻസ്ഫോം ലളിതമാണ് അരികുകൾ പരസ്പരം വിന്യസിച്ചിരിക്കുന്ന ടെർമുകൾ നിലനിർത്തുന്നു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ ഇവിടെയുള്ള ടെർമിലേക്ക് സബ്സ്റ്റിട്യൂട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇടവേള എടുക്കും സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായല്ലോ അല്ലെ ഡീബൈ മോഡൽ കൊണ്ട് തുടങ്ങുക ഇൻവെർസ് ഫോറിയർ ട്രാൻഫോം എടുക്കുക കോൺവോല്യൂഷൻ ലളിതമാക്കുക എന്നിട്ട് ഇപ്പോൾ എനിക്ക് E യുടെ അടിസ്ഥാനത്തിൽ ഒരു റിലേഷൻ കിട്ടി RHS E യുടെ അടിസ്ഥാനത്തിൽ ആണ് ഇത് ഞാൻ ലേക്ക് റീപ്ലേസ് ചെയ്യും അങ്ങനെ എനിക്ക് E യും H ഉം തമ്മിലുള്ള ഒരു അപ്ഡേറ്റ് റിലേഷൻ കിട്ടും അതാണ് എനിക്ക് വേണ്ടിയിരുന്നത് ഇനി നമുക്ക് ആ കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കാം ഇതുവരെ എനിക്ക് എല്ലാ പാസ്ററ് ടൈം ഇൻസ്റ്റൻസിലും ഇലക്ട്രിക് ഫീൽഡ് ആവശ്യമുണ്ട് ഇനീയും അത് ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൈകാര്യം ചെയ്യാം